അതിനാൽ ഫാൾസ് പാത്തുകൾ എന്ന ആശയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച തുടരുന്നു ഒരു സർക്യൂട്ട് നെറ്റ്ലിസ്റ്റിലെ ഫാൾസ് പാത്തുകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഫാൾസ് പാത്തുകൾഓർത്തിരിക്കേണ്ടത് പാഥുകളുടെ നിർണായകത തിരിച്ചറിയുന്നതിനും ചില സമയങ്ങളെ വിശകലനം ചെയ്യുന്നതിനും ചില പാതകൾ ഇല്ലാതാക്കുന്നതിനും പ്രധാനമാണ് പരാമീറ്ററുകളും അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സ്റ്റാറ്റിക് സെൻസിറ്റൈസേഷൻ എന്നാണ് അതിനാൽ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ ഈ ആശയം വിശദീകരിക്കും അതിനാൽ ഞാൻ പറയുന്നത് ഒരു സർക്യൂട്ട് നൽകിയാൽ ചില പാതകൾ സ്റ്റാറ്റിക്കലി സെൻസിറ്റീവ് ആണെന്ന് പറയപ്പെടുന്നു ഒരു ഇൻപുട്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ ഇൻപുട്ട് മുതൽ ഔട്ട്പുട്ട് വരെ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയും ഗേറ്റുകളിലേക്കുള്ള മറ്റെല്ലാ ഇൻപുട്ടുകളിലും അർത്ഥമാക്കുന്നത് വഴിയിലുടനീളം കിടക്കുന്നവയെ നിയന്ത്രിക്കാത്ത മൂല്യങ്ങളിലേക്ക് സജ്ജമാക്കിയിരിക്കുന്നു ഈ സ്റ്റാറ്റിക് സെൻസിറ്റൈസേഷൻ ഗേറ്റ് കാലതാമസത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ ഇത് വിശദീകരിക്കട്ടെ അതിനാൽ ഈ ഉദാഹരണം എന്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ആണ് അതിനാൽ നമുക്ക് ഗേറ്റുകൾക്ക് കുറച്ച് പേര് നൽകാം G2 ഇത് നൽകിയ സർക്യൂട്ട് ഈ കോമ്പിനേഷണൽ സർക്യൂട്ട് നിങ്ങൾ ഒരു കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ ഈ സർക്യൂട്ട് തിരിച്ചറിഞ്ഞ യുക്തിപരമായ പ്രവർത്തനം എന്താണ് a b ഇതൊരു NOR ഗേറ്റ് ആണ് അതിനാൽ ഔട്ട്പുട്ട് a ബാർ b ബാർ ആയിരിക്കും AND ഗേറ്റ് ഉണ്ട് ഈ ഔട്ട്പുട്ട് ab ആയിരിക്കും അല്ലെങ്കിൽ ഗേറ്റ് ഇത് ab or c ആയിരിക്കും ഇത് AND ഗേറ്റ് ആണ് അതിനാൽ a ബാർ b ബാറും ab റദ്ദാക്കപ്പെടും a ബാർ b ബാർ c ഇത് അന്തിമ ഔട്ട്പുട്ട് അവകാശമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് നമുക്ക് ഈ വഴികൾ പരിഗണിക്കാം ഇപ്പോൾ ഞങ്ങൾ 2 പാതകൾ പരിഗണിക്കുന്നു ആദ്യ പാത ആരംഭിക്കുന്നത് ഇൻപുട്ട് മുതൽ ഗേറ്റ് G2 ഗേറ്റ് G3 ഗേറ്റ് G4 വരെയാണ് ഇതാണ് അവസാന ഔട്ട്പുട്ട് കൂടാതെ ഇൻപുട്ട് b ൽ നിന്നും അതിനാൽ ഈ വഴികൾ സെൻസിറ്റൈസാബ്ലെ അല്ലെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ സെൻസിറ്റൈസാബ്ലെ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പാതയിലൂടെ എനിക്ക് ഗേറ്റുകളുടെ ഒരു ശ്രേണി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു NAND ഗേറ്റ് ഉണ്ടെന്ന് പറയട്ടെ അപ്പോൾ എനിക്ക് ഒരു OR ഗേറ്റ് ഉണ്ട് ഒരു പാതയിൽ എനിക്ക് മറ്റൊരു NAND ഗേറ്റ് ഉണ്ടെന്ന് പറയട്ടെ മറ്റ് ഇൻപുട്ടുകൾ അവിടെയുണ്ട് അതിനാൽ എനിക്ക് ഒരു വരിയിൽ നിന്ന് ഒരു സിഗ്നൽ പ്രചരിപ്പിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പറയട്ടെ അതിനാൽ ഈ പാതയിലൂടെ അതിനാൽ ഗേറ്റുകളിലുടനീളമുള്ള മറ്റ് ഇൻപുട്ടുകൾക്ക് ഞാൻ നിയന്ത്രണാതീതമായ മൂല്യം പ്രയോഗിക്കേണ്ടതുണ്ട് ഈ പരിവർത്തനം പോലെ ഞങ്ങൾ ചെയ്യും ഈ AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് വരൂ ഒരു OR ഗേറ്റിനായി ഞാൻ ഈ ഇൻപുട്ടിൽ 1 പ്രയോഗിച്ചാൽ ഞാൻ ഒരു NAND ഗേറ്റിന് 0 പ്രയോഗിക്കണം വീണ്ടും ഞാൻ 1 പ്രയോഗിക്കണം ഈ പരിവർത്തനങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഇത് ഉറപ്പാക്കും ഗേറ്റിനെ ആശ്രയിച്ച് മറ്റ് ഇൻപുട്ടുകളോ സൈഡ് ഇൻപുട്ടുകളോ നിയന്ത്രണമില്ലാത്ത മൂല്യങ്ങൾ പ്രയോഗിക്കണം അങ്ങനെ മാറ്റം പ്രചരിപ്പിക്കാൻ കഴിയും അതിനാൽ G2 G3 G4 വഴി ഒരു സിഗ്നൽ പ്രചരിപ്പിക്കാൻ കഴിയുന്ന അതേ രീതിയിൽ ഈ സർക്യൂട്ടിലും നമുക്ക് ശ്രമിക്കാം ഒരു G2 വഴി ഞാൻ ഈ പാതയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് a2 വഴി G2 അതിനാൽ ഇതൊരു AND ഗേറ്റ് ആണ് അതിനാൽ ഞാൻ മറ്റ് ഇൻപുട്ടിൽ ഒരു നോൺ കൺട്രോളിംഗ് മൂല്യം 1 പ്രയോഗിക്കണം തുടർന്ന് G3 വഴി ഒരു OR ഗേറ്റ് ആണ് ഞാൻ മറ്റ് ഇൻപുട്ടിൽ ഒരു 0 പ്രയോഗിക്കണം അങ്ങനെ വീണ്ടും ഞാൻ G4 ഗേറ്റ് എന്നിവയിൽ പ്രവേശിക്കുന്നു ഞാൻ ഇവിടെ 1 പ്രയോഗിക്കണം അപ്പോൾ മാത്രമേ ഇത് ഔട്ട്പുട്ട് പ്രചരിപ്പിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ കുഴപ്പം എന്തെന്നാൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ മറ്റൊരു വശത്തെ ഇൻപുട്ടിൽ 1 പ്രയോഗിച്ചയുടനെ ഈ b യും 1 ശരിയായി മാറി ഇതിനർത്ഥം ഞാൻ ബി 1 ൽ പ്രയോഗിക്കണം എന്നാണ് ഇപ്പോൾ ഇത് ഒരു NOR ഗേറ്റ് ആണ് ഏതെങ്കിലും 1 ഇൻപുട്ടുകളിൽ ഔട്ട്പുട്ട് 0 ആക്കും പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ 1 ആവശ്യമാണ് ഒരു സംഘർഷം ഉണ്ട് നിങ്ങൾക്ക് മറ്റ് ഭാഗങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന അതേ കാര്യം സൈഡ് ഇൻപുട്ടുകളിൽ കോണ്ടറിംഗ് അല്ലാത്ത മൂല്യങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ പാതകളെ ബോധവൽക്കരിക്കാൻ കഴിയില്ല ഇത് യഥാർത്ഥത്തിൽ സത്യമാണ് നിങ്ങൾക്ക് അണീക്വൽ ഇൻവെർഷൻ പരിറ്റിയുള്ള റീകൺവെർജിന്റ പാത എന്ന് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴെല്ലാം സർക്യൂട്ടുകൾക്കായി നിങ്ങളോട് പറയാൻ എയിൽ നിന്ന് ഫാനൌട്ടുകൾ ഉണ്ട് ഒരു ഫാനൌട്ട് കണക്ഷൻ ഉണ്ട് ഒന്ന് G1 വഴി G4 ലേക്ക് പോകുന്നു മറ്റൊന്ന് G2 G3 G4 വഴി പോകുന്നു ഇപ്പോൾ ഒരു പാതയിൽ ഒരു വിപരീത NOR ഉണ്ട് മറ്റ് പാതയിൽ വിപരീത കവാടങ്ങളില്ല അതിനാൽ ഒരു പാതയിൽ വിപരീതങ്ങളുടെ എണ്ണം വിചിത്രമാണ് മറ്റ് പാത തുല്യമാണ് അവ വീണ്ടും ഒരു ഗേറ്റിൽ ലയിക്കുന്നു ഇതിനെ അണീക്വൽ ഇൻവെർഷൻ പരിറ്റിയുള്ള റീകൺവെർജിന്റ പാത എന്ന് വിളിക്കുന്നു അതിനാൽ അത്തരമൊരു കാര്യം ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വ്യക്തിഗത പാതകളെ ബോധവൽക്കരിക്കാനാകില്ല അതിനാൽ ഇത് ഒരു പോരായ്മയാണ് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാറ്റിക് ടൈമിംഗ് അനലൈസർ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ഇവിടെ കാണുന്നു ആ പാത ഒരിക്കലും സെൻസിറ്റൈസ് ചെയ്യാൻ കഴിയില്ല ഇത് ഒരു ഫാൾസ് പാത്തുകൾ തിരിച്ചറിയപ്പെടും അതിനാൽ ഏറ്റവും നീണ്ട കാലതാമസം സത്യമാണ് ശരിയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതേ സർക്യൂട്ട് ഞാൻ ചില ഇൻപുട്ടുകൾ പ്രയോഗിക്കുന്നു ഒരു ടൈമിംഗ് സിമുലേഷൻ നടത്താനും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനും ഞാൻ ശ്രമിക്കുന്നു അതിനാൽ രണ്ട് ഇൻപുട്ടുകളും മൂന്നാമത്തെ ഇൻപുട്ടിന് 0 ലഭിക്കുന്നു ആദ്യത്തെ 2 ഇൻപുട്ടുകൾ 1 മുതൽ 0 വരെ പോകുന്നു സമയം tക്ക് തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് ടൈമിംഗ് ഡയഗ്രം കാണിക്കാം അതിനാൽ ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അതിനാൽ ഞാൻ സമയം അടയാളപ്പെടുത്തുകയാണ് അതിനാൽ ഇത് 0 t 1 2 3 4 എന്നിവയ്ക്ക് തുല്യമാണ് ഇപ്പോൾ ഇൻപുട്ടുകൾ കാണിക്കാൻ ഇത് ഒരു സമയത്ത് 1 മുതൽ 0 വരെയുള്ള ട്രാന്സിഷൻ t ക്ക് തുല്യമാണ് അതിനാൽ ഒരു ഇൻപുട്ട് ഇതുപോലെയെന്ന് പറയട്ടെ ബി ഒന്നുതന്നെയാണ് b സമയം 1 മുതൽ 0 വരെ പരിവർത്തനവും നടത്തുന്നു 0 c എപ്പോഴും 0 ആണ് c എന്നത് സ്ഥിരമായ 0 ആണെന്ന് പറയുക ഇപ്പോൾ ഗേറ്റ് ഡിലേയ് എല്ലാം ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ G1 ന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഓരോന്നായി പറയാം A1 B എന്നിവയുടെ NOR ആണ് G1 തുടക്കത്തിൽ രണ്ടും 1 1 അതിനാൽ ഇത് 0 ആകും അതിനുശേഷം രണ്ടും 0 0 അത് ഒന്നായി പക്ഷേ 1 ന്റെ ഡിലേയ് അതിനാൽ ഒരു യൂണിറ്റ് ഡിലേയ് ശേഷം ഇത് 1 ആകും ഇവിടെ 1 ആയി തുടരും G2 നെ കുറിച്ച് സംസാരിക്കുക G2 AND ആണ് രണ്ടും 1 ആകും ഒരിക്കൽ 0 ആണെങ്കിൽ അവർ 0 ആകും അതിനാൽ വീണ്ടും 1 ഡിലേയ് ആയാൽ G2 നിലനിൽക്കും 1 ഇവിടെ 0 ആകും G3 G3 എന്നത് G2 ന്റെ OR ആണ് c എന്നത് എപ്പോഴും 0 അതിനാൽ ഇത് G2 തന്നെ ആയിരിക്കും എന്നാൽ ഒരു കാലതാമസത്തോടെ 1 അതിനാൽ 1 ന്റെ ഡിലേയ് ഇത് ഇതുപോലെയാകും ഒടുവിൽ G4 എന്ത് സംഭവിക്കും G4 എന്നത് G1 G3 എന്നിവയുടെ AND ആണ് അത് 1 ആയിരിക്കും പക്ഷേ കാലതാമസത്തോടെ 1 അങ്ങനെ രണ്ടും 1 ഇവിടെ ലഭിക്കുന്നു അതിനാൽ ഒരെണ്ണം വൈകിയതിനുശേഷം ഇത് ഇവിടെ വരും അതിനാൽ ഇത് തെറ്റായ പാതയാണെന്ന് ഞങ്ങളുടെ തെറ്റായ പാത കിഴിവ് അൽഗോരിതം പറയുന്നു അതിനാൽ ഇത് ഒരു യഥാർത്ഥ നിർണായക പാതയാണ് ഏറ്റവും ദൈർഘ്യമേറിയ കാലതാമസം 2 ആണ് എന്നാൽ ഒരു പ്രത്യേക ഇൻപുട്ടിനായി ഞങ്ങൾ കണ്ടെത്തിയത് ഔട്ട്പുട്ട് സ്ഥിരത കൈവരിക്കുന്നത് സമയത്തിന് ശേഷം മാത്രമാണ് t 3 ഔട്ട്പുട്ടിൽ ഒരു തകരാറുണ്ടെന്ന് നിങ്ങൾ കാണുന്നു താൽക്കാലിക മാറ്റം കാരണം ഔട്ട്പുട്ട് 0 ആയിരിക്കണം a b c a0 b0 c0 എന്ന് ഞാൻ പ്രയോഗിക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് പൂജ്യമായിരിക്കണം എന്നാൽ ഇടയ്ക്കിടെ ഇത് 1 ലേക്ക് പോകുന്നു അപ്പോൾ അത് 0 ലേക്ക് സ്ഥിരത കൈവരിക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് സ്ഥിരത കൈവരിക്കുന്നത് 3 കാലതാമസത്തിനു ശേഷം മാത്രമാണ് അല്ല 2 ശരിയാണ് ഇതാണ് ഈ കണക്കുകൂട്ടൽ അതിനാൽ ഇവിടെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പിന്തുടരുന്ന സ്റ്റാറ്റിക് സെൻസിറ്റൈസേഷൻ രീതിയാണ് ഇത് കുറച്ച് ഡിലേയ് കുറയ്ക്കുന്നു അതിനാൽ യഥാർത്ഥ ഡിലേയ് 3 ആണ് പക്ഷേ ഇത് ഞങ്ങൾക്ക് 2 ഡിലേയ് നൽകും അത് തെറ്റായ അവസ്ഥയാണ് അതിനാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത് തെറ്റാണ് ഞാൻ പറഞ്ഞത് അണീക്വൽ ഇൻവെർഷൻ പരിറ്റിയുള്ള റീകൺവെർജിന്റ പാത ഉണ്ടെന്നാണ് അത് ഒരു പ്രശ്നമാണ് എന്നാൽ നിയന്ത്രിക്കുന്നതും നിയന്ത്രിക്കാത്തതുമായ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവഗണിക്കുകയാണ് മൂല്യങ്ങൾ നിയന്ത്രിക്കുന്നതും നിയന്ത്രണാതീതമാകുന്നതുമായ സമയം കാരണം സൈഡ് ഇൻപുട്ടുകളുടെ മൂല്യങ്ങൾ സ്ഥിരമല്ല അവ സമയത്തിലും മാറുന്നു അതിനാൽ ചിലപ്പോൾ അവർ നിയന്ത്രിക്കുന്നു ചിലപ്പോൾ അവ നിയന്ത്രിക്കില്ല അതിനാൽ സ്ഥിരമായ രീതിയിൽ നിങ്ങൾ ഒരു നിശ്ചിത മൂല്യം പ്രയോഗിക്കുന്നത് സ്ഥിതിവിവരക്കണക്കല്ല അതിനാൽ താൽക്കാലികമായി അവർ നില മാറിയേക്കാം അത് പ്രശ്നം സൃഷ്ടിക്കുന്നു അതിനാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ് ഒരേ സിഗ്നലിന് ഒരു സമയത്ത് നിയന്ത്രണ മൂല്യവും മറ്റൊരു സമയത്ത് നിയന്ത്രണമില്ലാത്ത മൂല്യവും ഉണ്ടാകാം അതിനാൽ നമുക്ക് ടൈമിംഗ് സിമുലേഷൻ എന്ന ഒന്ന് പരീക്ഷിക്കാം ഇത് നമുക്ക് ശരിയായ ഫലം നൽകുന്നുണ്ടോ എന്ന് നോക്കാം ടൈമിംഗ് സിമുലേഷൻ എന്നാൽ നമ്മൾ സമയം കണക്കുകൂട്ടുകയും സിഗ്നൽ ട്രാന്സിഷൻ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നോക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ വീണ്ടും ഇതുപോലുള്ള ഒരു ഉദാഹരണം എടുക്കുന്നു ഇവ ചില ഗേറ്റുകൾ ചില ബഫറുകൾ AND ഗേറ്റ് ചില ഹൈപോതെറ്റിക്കൽ ഡിലേയ് 2 1 4 1 1 എന്ന് പറയട്ടെ അതിനാൽ 2 ഇൻപുട്ടുകൾ ഉണ്ടെന്ന് അനുമാനിക്കാം ട്രാന്സിഷൻ തുല്യമായി നടക്കുന്നു t0 ഈ ഗേറ്റുകളുടെ ഡിലേയ് കാരണം ഈ പരിവർത്തനം 2 ന്റെ ഡിലെയോടെ ഔട്ട്പുട്ട് പോകും അതിനാൽ ഈ പരിവർത്തനം 1 1 2 4 4 എന്നിങ്ങനെ 2 ഡിലെയോടെ നടക്കും ഇപ്പോൾ ഈ ഗേറ്റ് 1 ന്റെ ഒരു ഡിലേയ് നൽകുന്നു എന്നാൽ ഇവിടെ നിങ്ങൾ സമയം 1 ൽ കാണുന്നു അത് ഉയരുന്നു സമയം 2 ൽ അത് കുറയുന്നു അതിനാൽ 1 നും 2 നും ഇടയിൽ രണ്ടും ഉയർന്നതാണ് അതിനാൽ വീണ്ടും 1 ന്റെ ഡിലേയ് ഉണ്ടാകും അതിനാൽ 2 നും 3 നും ഇടയിൽ രണ്ടും ഉയർന്ന കാലയളവ് ഉണ്ടാകും 1 ന്റെ ഔട്ട്പുട്ട് നോക്കൂ ഈ സിഗ്നൽ 1 ന് 4 ന് പോകുന്നു എന്നാൽ 4 ആകുമ്പോഴേക്കും അത് ഇതിനകം 0 അതിനാൽ ഔട്ട്പുട്ട് സ്ഥിരതയുള്ളതാണ് 0 അതിനാൽ ടൈമിംഗ് സിമുലേഷൻ നിങ്ങൾ ഇത് പ്രയോഗിച്ചാൽ കാണിക്കും അതായത് ഒരു ഇൻപുട്ട് 0 ആണ് മറ്റ് ഇൻപുട്ടും ഒന്നാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി AND ഫംഗ്ഷനാണ് അതിനാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം അത് ഇതിനകം 0 ആണ് അതിനാൽ അത് നല്ലതായിരിക്കണം അതായത് v 0 ആണ് ഈ കേസിന് നിങ്ങൾ കാണുന്നു ഡിലേയ് 0 ആണെന്ന് കാണിക്കുന്നു എന്നാൽ ഒരു ഗേറ്റിന്റെ ഡിലേയ് ഞാൻ കുറയ്ക്കുന്നുവെന്ന് കരുതുക ഇത് 4 ആണെന്ന് പറയട്ടെ നമുക്ക് ഇത് 2 ഉണ്ടാക്കാം നമുക്ക് വീണ്ടും അതേ കണക്കുകൂട്ടൽ നടത്താം ഈ ഭാഗം ഒന്നുതന്നെയാണ് അതിനാൽ ഇവിടെ ഈ പരിവർത്തനം നേരത്തെ 2 ന് ദൃശ്യമാകും അതിനാൽ ഇവിടെയും ഇത് ഒരു പരിവർത്തനം നടത്തുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ AND ചെയ്താൽ ഈ 1 ഉം 1 ഉം ഓവർലാപ്പ് ചെയ്യും അതിനാൽ 3 നും 4 നും ഇടയിലുള്ള 1 കാലതാമസത്തിനുശേഷം ഒരു പരിവർത്തനം ഉണ്ടാകും അതിനാൽ സമയം 4 കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് സ്ഥിരത കൈവരിക്കാനാകൂ അതിനാൽ ഈ കേസിനായി ഞങ്ങൾ ഡിലേയ് കുറയ്ക്കുമ്പോൾ അതേ ഇൻപുട്ട് മൂല്യങ്ങൾ അതേ ഇൻപുട്ട് ട്രാൻസിഷൻ ഡിലേയ് 4 ൽ കാണിക്കും അതിനാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാറ്റിക് ടൈമിംഗ് അനലൈസർ നിങ്ങൾ ഡിലേയ് കുറയ്ക്കുമ്പോഴെല്ലാം ഡിലേയ് വർദ്ധിക്കുന്നതായി കാണിച്ചേക്കാം ചില ഘടകങ്ങളുടെ അതിനാൽ കാര്യങ്ങൾ വേഗത്തിലാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ ഉദാഹരണം കാണിക്കുന്നത് പോലെ അതേ സെറ്റ് ഇൻപുട്ട് ട്രാൻസിഷനുകൾക്ക് നേരത്തെ ഡിലേയ് ഉണ്ടായിരുന്നില്ല കാരണം ഔട്ട്പുട്ട് 0 ആയതിനാൽ അത് എല്ലായ്പ്പോഴും പൂജ്യമാണ് എന്നാൽ ഇപ്പോൾ 4 ന് ശേഷം മാത്രമാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് സ്ഥിരമാക്കി ഇത് ഒരു പ്രശ്നമാണ് ശരി ഇവിടെ എന്താണ് തെറ്റ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യമാണിത് ഞങ്ങൾ ചില ഗേറ്റ് ഡിലേയ് കുറയ്ക്കുകയാണെങ്കിൽ ചില ഡിലേയ് കണക്കാക്കുന്നത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ പരസ്പരവിരുദ്ധമായ അവകാശമാണ് അതിനാൽ ഞാൻ ഒരു ഗേറ്റ് ഡിലേയ് കുറയ്ക്കുകയാണെങ്കിൽ എന്റെ പാത ഡിലേയ് അല്ലെങ്കിൽ സർക്യൂട്ട് ഡിലേയ് കുറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇവിടെ അത് നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് അതിനാൽ എന്റെ ടൈമിംഗ് സിമുലേഷൻ അർത്ഥത്തിൽ ശരിയല്ല പക്ഷേ ഞാൻ ഒരു ഗേറ്റിന്റെ ഡിലേയ് കുറയ്ക്കുകയാണെങ്കിലും ഡിലേയ് വർദ്ധിക്കുകയാണെന്ന് എന്റെ ടൈമിംഗ് സിമുലേഷൻ പറയുന്നു അതിനാൽ ഇത് സ്വീകാര്യമല്ല കാരണം പ്രായോഗികമായി പല ഗേറ്റ് ഡിലേയ് യഥാർത്ഥത്തിൽ കുറയ്ക്കാനാകും കാരണം ഞങ്ങൾ സാധാരണയായി സിമുലേഷനിൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഡിലേയ് മൂല്യം അവർ പരിമിതമാണ് ഒരു ഡിലേയ് 4 ആണെന്ന് ഞങ്ങൾ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ 4 അല്ല പരമാവധി ഡിലേയ് 4 കാരണം നിങ്ങൾ ഒരു ചിപ്പിൽ ഗേറ്റുകൾ നിർമ്മിക്കുമ്പോൾ ഫാബ്രിക്കേഷനിൽ ധാരാളം വ്യതിയാനങ്ങൾ ഉണ്ടാകാം ചില ഗേറ്റ് 3 ചില ഗേറ്റ് 2 5 ചില ഗേറ്റ് 3 4 ആണ് നിങ്ങൾ പറയുന്ന പരമാവധി പരിധി അതാണ് ഏറ്റവും മോശം കേസ് ഡിലേയ് ശരിയാണ് അതിനാൽ വാസ്തവത്തിൽ ഗേറ്റ് ഡിലേയ് ചില ഉയർന്ന പരിധിക്കുള്ളിൽ ഉള്ള ചില സർക്യൂട്ടുകൾ ഞങ്ങൾ പരോക്ഷമായി വിശകലനം ചെയ്യുന്നു അതിനാൽ ഇത് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു ഇപ്പോൾ നമുക്ക് ചില സിമുലേഷൻ ആവശ്യമാണ് അവിടെ മോണോടോൺ സ്പീഡ്അപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ചില പ്രോപ്പർട്ടികൾ തൃപ്തിപ്പെടുത്തണം എന്താണ് മോണോടോൺ സ്പീഡ്അപ്പ് പ്രോപ്പർട്ടി ഇത് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് സി നൽകിയിട്ടുണ്ടെങ്കിൽ ചില ഗേറ്റ് ഡിലേയ് കുറയ്ക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ഒരു സർക്യൂട്ട് സി ഡാഷ് ലഭിക്കുമെന്നും ഈ പ്രക്രിയയിൽ ഡിലേയ് എസ്റ്റിമേറ്റും കുറയ്ക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് തുല്യമായിരിക്കണം മുകളിലേക്ക് പോകരുത് ഒരു മോണോടോണിസിറ്റി ഉണ്ട് അതിനാൽ നിങ്ങൾ ചില ഗേറ്റ് ഡിലേയ് കുറയ്ക്കുകയാണെങ്കിൽ സർക്യൂട്ടിന്റെ നിങ്ങളുടെ മൊത്തം ഡിലേയ് കണക്കാക്കുന്നത് വർദ്ധിക്കരുത് ഈ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് വസ്തുവിൽ മോണോടോണിസിറ്റി ഉണ്ടായിരിക്കണം ഈ പ്രോപ്പർട്ടി തൃപ്തികരമാണെങ്കിൽ നിങ്ങളുടെ അൽഗോരിതം മോണോടോണിസിറ്റി പ്രോപ്പർട്ടിയെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ടൈമിംഗ് സിമുലേഷൻ വ്യക്തമായും ഈ വസ്തുവിനെ തൃപ്തിപ്പെടുത്തുന്നില്ല പക്ഷേ നമുക്ക് കുറച്ച് പരിഷ്ക്കരിക്കാനും ഒരു ലളിതമായ കാര്യം കാണാനും കഴിയും ഞാൻ ഒരു ഉദാഹരണം ഉപയോഗിച്ച് വിശദീകരിക്കുന്നു ഇത് x മൂല്യ സിമുലേഷൻ എന്ന് വിളിക്കപ്പെടുന്നു ഇതും ടൈമിംഗ് സിമുലേഷൻ ആണ് എന്നാൽ ഞങ്ങൾ 1 മുതൽ 0 അല്ലെങ്കിൽ 0 വരെയുള്ള കൃത്യമായ സിഗ്നൽ ട്രാൻസിഷനുകൾ കാണിക്കുന്നില്ല ഞങ്ങൾ x എന്ന് വിളിക്കപ്പെടുന്ന ചില പ്രത്യേക ലോജിക് മൂല്യം ഉപയോഗിക്കുന്നു 4 ൽ ട്രാന്സിഷൻ നടക്കുന്ന ഈ നൊട്ടേഷൻ ഇതിനർത്ഥം ഈ ഉയരുന്ന എഡ്ജ് t മൈനസ് ഇൻഫിനിറ്റിക്കും 4 നും ഇടയിൽ എവിടെയും സംഭവിക്കാം എന്നാണ് അതിനാൽ നിങ്ങൾ ഈ x മൂല്യ സിമുലേഷൻ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കാണിക്കാൻ കഴിയും ഇനി അഭിമുഖീകരിക്കില്ല നിങ്ങൾ ഇവിടെ 0 പ്രയോഗിക്കുന്നുവെന്ന് പറയട്ടെ 1 ഇവിടെ പറയുക മുമ്പ് ഇത് x ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു ഇതിനർത്ഥം ഈ വ്യവസ്ഥ സത്യമായിരുന്നു എന്നാണ് ഈ ട്രാന്സിഷൻ പണ്ട് എവിടെയും സംഭവിക്കാം കൃത്യം 0 അല്ല അതിനാൽ ഡിലേയ് 2 ന് ശേഷം ഈ 0 2 ലേക്ക് മാറ്റും ഈ 0 1 ലേക്ക് മാറ്റും ഈ 0 4 ലേക്ക് മാറ്റപ്പെടും ഇതിന് 1 ഡിലേയ് ഉണ്ട് അതിനാൽ ഈ x ന്റെ പ്രോപ്പർട്ടി നോക്കിയാൽ ഇത് 3 ലേക്ക് മാറും കാരണം 3 ൽ തീർച്ചയായും രണ്ടും 0 എന്നതിലാണ് x ആണ് ഒടുവിൽ ഇവിടെ 4 നിങ്ങൾ 3 മുകളിലേക്ക് പോകുന്നു അതിനാൽ 4 ന് തീർച്ചയായും നിങ്ങൾ താഴേക്ക് പോകുന്നു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഈ സിമുലേഷൻ എളുപ്പത്തിൽ കാണാൻ കഴിയും 4 ന് ശേഷം മാത്രമേ ഇത് സ്ഥിരത കൈവരിക്കുകയുള്ളൂ മുമ്പത്തെ കേസിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു 0 ലഭിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ നിങ്ങൾ x മൂല്യം സിമുലേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കണക്കുകൂട്ടലിൽ നിങ്ങൾക്ക് കുറച്ച് കൃത്യത ലഭിക്കും അതിനാൽ ഇതിനെ സമയബന്ധിതമായ 3 മൂല്യമുള്ള സിമുലേഷനുകൾ എന്ന് പരാമർശിക്കുന്നു അവിടെ 0 1 എന്നിവയ്ക്ക് പകരം നിങ്ങൾക്ക് x എന്ന അഡിഷണൽ സ്റ്റേറ്റ് ഉണ്ട് അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾ ഇതിനകം ഇവിടെ കണ്ടിട്ടുണ്ട് സിഗ്നൽ ട്രാൻസ്മിഷൻ ഈ സമയത്തിന് മുമ്പ് എവിടെയും നടക്കുമെന്നാണ് ഇതിനർത്ഥം കൃത്യമായി ഈ സമയത്ത് അല്ല അതിനാൽ ഈ പരിഷ്ക്കരണത്തിലൂടെ മോണോടോൺ സ്പീഡപ്പ് പ്രോപ്പർട്ടി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇതാണ് നല്ല കാര്യം അതിനാൽ ഒരു SAT സോൾവർ ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഫാൾസ് പാത കണ്ടെത്തുന്നതിനോ തിരിച്ചറിയുന്നതിനോ ഉള്ള മറ്റൊരു സമീപനമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് SAT എന്നത് സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു സർക്യൂട്ടുകൾ മാറുന്നതിൽ തൃപ്തികരമായ പ്രശ്നം വളരെ പ്രസിദ്ധമായ പ്രശ്നങ്ങളാണ് ചില പ്രത്യേക രൂപത്തിൽ ഒരു ബൂലിയൻ ഫംഗ്ഷൻ നൽകുന്നത് ഉദാഹരണത്തിന് ചില ഫോമുകളുടെ ഉൽപ്പന്നം SAT സോൾവറിനൊപ്പം ഇൻപുട്ട് വേരിയബിളുകളുടെ ചില കോമ്പിനേഷൻ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കും നിങ്ങളുടെ തന്നിരിക്കുന്ന പ്രവർത്തനം തുല്യമാണ് 1 അങ്ങനെയെങ്കിൽ ഇൻപുട്ടുകളുടെ സംയോജനത്തിനാണ് ഫംഗ്ഷൻ 1 അത് SAT സോൾവറിന്റെ ചുമതലയാണ് അതിനാൽ SAT അടിസ്ഥാനമാക്കിയുള്ള ഫാൾസ് പാത അനാലിസിസ് അത് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ് ഇപ്പോൾ കാര്യം സാറ്റ് സോൾവർ വളരെ പൊതുവായ ഒരു ഉപകരണമാണ് അത് വിശാലമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കാം ഇന്ന് ലഭ്യമായ SAT സോൾവറുകൾ അവയിൽ പലതും സൌജന്യമായി ലഭ്യമാണ് അവ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു അവർക്ക് വളരെ വലിയ അളവിലുള്ള വേരിയബിളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആയിരക്കണക്കിന് വേരിയബിളുകൾ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഒരു ബൂലിയൻ ഫംഗ്ഷൻ ചില രൂപങ്ങളുടെ ഉൽപ്പന്നത്തിലാണ് നൽകിയിരിക്കുന്നത് 1 ന് തുല്യമായ വേരിയബിളുകളുടെ ചില മൂല്യങ്ങൾ കണ്ടെത്താൻ ഒരു SAT സോൾവർ ശ്രമിക്കും അതിനാൽ ഫാൾസ് പാത അനാലിസിസ് പ്രശ്നം എങ്ങനെ സം എക്സ്പ്രെഷന്റെ ഒരു പ്രോഡക്റ്റ്ആയി മാപ്പ് ചെയ്യാമെന്നും അത് ശരിയായി പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു SAT സോൾവർ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം അതിനാൽ SAT ഫോർമുലേഷൻ ഇങ്ങനെ പോകുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ SAT ഉപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങൾ അത് ശരിയായി മാപ്പ് ചെയ്യണം തീരുമാന പ്രശ്നം ഇവിടെയാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത് ക്യാപിറ്റൽ tക്ക് തുല്യമായതിനുശേഷം മാത്രമേ ഔട്ട്പുട്ട് സ്ഥിരത കൈവരിക്കാനാകൂ ഇപ്പോൾ ഞങ്ങൾ ഈ SAT സോൾവറോട് ചോദിക്കുന്നു ഡിലേയ് ക്യാപിറ്റൽ t കവിയാൻ കഴിയുന്ന ചില ഇൻപുട്ട് കോമ്പിനേഷനുകൾ ഉണ്ടോ ഇവിടെയാണ് നിങ്ങൾ പ്രശ്നം ഉന്നയിക്കുന്നത് ശരിയാണ് അതിനാൽ ഇത് സാധ്യമായ ഒരു ഫോർമുലേഷനാണ് മറ്റ് ഫോർമുലേഷനുകളും ഉണ്ടാകാം നിങ്ങൾക്ക് ശ്രമിക്കാം അതിനാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാ ഇൻപുട്ട് വെക്റ്ററുകളായ S ക്യാപിറ്റൽ T യുടെയും സെറ്റിനെ സ്വഭാവഗുണങ്ങളാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അത് ഔട്ട്പുട്ടുകൾ സ്ഥിരതയുള്ളതാക്കുന്നു അല്ലെങ്കിൽ Tക്ക് തുല്യമാണ് പിന്നീട് S എന്നത് ഒരു നൊട്ടേഷനാണ് അതിന്റെ അർത്ഥം T സമയത്തിനുള്ളിൽ സിഗ്നൽ സ്ഥിരത കൈവരിക്കുന്ന എല്ലാ വെക്റ്ററുകളെയും ഇത് സൂചിപ്പിക്കുന്നു കൂടാതെ ക്യാപിറ്റൽ S എന്നത് സാധ്യമായ എല്ലാ ഇൻപുട്ട് വെക്റ്ററുകളെയും സൂചിപ്പിക്കുന്നു അതിനാലാണ് ഔട്ട്പുട്ട് സത്യമോ മറ്റോ ആകുന്നത് ഇപ്പോൾ SAT പ്രശ്നം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഈ സെറ്റ് വ്യത്യാസം എസ് മൈനസ് S ക്യാപിറ്റൽ T അത് ശൂന്യമാണോ ഇത് തുല്യമായിരിക്കണമെന്ന് കാണുക അതിനാൽ സാധ്യമായ എല്ലാ ടെസ്റ്റ് വെക്റ്ററുകൾക്കും അതിനാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഔട്ട്പുട്ട് Sയിൽ സ്ഥിരതയുള്ളതായിരിക്കണം അതിനാൽ നിങ്ങൾ ഒരു സെറ്റ് വ്യത്യാസം S മൈനസ് Sചെയ്യുകയാണെങ്കിൽ ഈ സെറ്റ് ശൂന്യമായിരിക്കണം അതിനാൽ നിങ്ങൾ ഒരു നിശ്ചിത വ്യത്യാസം എടുത്ത് ശൂന്യത പരിശോധിക്കുക എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ ഇത് ശൂന്യമല്ല ഇതിനർത്ഥം ഇത് തൃപ്തികരമല്ല എന്നാണ് അതായത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് സമയ ലംഘനം ഉണ്ട് അതിനാൽ S S എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുക അനുബന്ധ ബൂലിയൻ ഫംഗ്ഷനുകൾ F F എന്നാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ നിങ്ങൾ SAT സോൾവറിന് നൽകുന്ന പ്രയോഗം F ആണ് F അല്ല ഈ പ്രോഡക്റ്റ് തൃപ്തികരമാണോ കാരണം സെറ്റ് വ്യത്യാസം അർത്ഥമാക്കുന്നത് ഇത് ശരിയാണ് ഇത് തെറ്റാണ് ഒരു ഉദാഹരണം ഉപയോഗിച്ച് നമുക്ക് അത് വിശദീകരിക്കാം അതിനാൽ ഇവിടെ വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞങ്ങൾ സർക്യൂട്ട് പരിഗണിക്കുന്നു അതിനാൽ നമുക്ക് സർക്യൂട്ട് ഒരിക്കൽ കൂടി പ്രവർത്തിക്കാം അതിനാൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ഉണ്ട് അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ട് ഈ രണ്ട് ഇൻപുട്ടുകളിലും a b എന്നിവ പ്രയോഗിക്കുന്നു കൂടാതെ ഞങ്ങൾക്ക് ഒരു OR ഗേറ്റ് ഉണ്ട് c ഇവിടെ പ്രയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് AND ഗേറ്റ് ഉണ്ട് ഇത് ഇവിടെ പ്രയോഗിക്കുന്നു അതിനാൽ ഇത് g ആണ് ഇത് ഗേറ്റുകളുടെ ഡിലേയ് ആൺ അതിനാൽ ഞാൻ 1 എന്ന് അനുമാനിക്കും നമുക്ക് അതിനെ d എന്ന് വിളിക്കാം നമുക്ക് e എന്ന് വിളിക്കാം നമുക്ക് f എന്ന് വിളിക്കാം അതിനാൽ ഞങ്ങൾ ഔട്ട്പുട്ട് എക്സ്പ്ഷൻ കണക്കുകൂട്ടുകയാണെങ്കിൽ നിങ്ങളുടെ d a ബാർ b ബാർ ആണ് ഇത് ഞാൻ നേരത്തേ സൂചിപ്പിച്ചതാണ് e ab f എന്നത് ab അല്ലെങ്കിൽ c ന് തുല്യമാണ് അതിനാൽ g ആയിത്തീരുന്നു d e d f അങ്ങനെ അത് a ബാർ b ബാർ c ആയി മാറുന്നു ഇതാണ് g ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഈ ഉദാഹരണത്തിൽ എല്ലാ പ്രാഥമിക ഇൻപുട്ടുകളും കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ അനുമാനിക്കുന്നു എല്ലാ പ്രാഥമിക ഇൻപുട്ടുകളും 0 ന് തുല്യമാണ് എല്ലാ ഗേറ്റ് ഡിലേയ് 1 അങ്ങനെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഔട്ട്പുട്ട് സ്ഥിരത 2 ൽ കൂടുതലാണ് കാരണം 2 ആണ് ഞങ്ങളുടെ പ്രതീക്ഷിത സമയപരിധി അതിനാൽ ഇവിടെ ഞങ്ങളുടെ ടൈമിംഗ് അനലൈസർ പറഞ്ഞു ഡിലേയ് 2 ആയിരിക്കണം അതിനാൽ 2 ശരിയായ കണക്കാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനാൽ SAT ഫോർമുലേഷൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ ഉദാഹരണം ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുതരുന്നു അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഒരു ബൂളിയൻ എക്സ്പ്രഷനിലേക്ക് മാപ്പ് ചെയ്യുന്നത് അതിനാൽ നമ്മൾ g 1 കോമ t 2 ന് തുല്യമായ ഒരു നൊട്ടേഷൻ ഉപയോഗിക്കുന്നു ഇത് ഇൻപുട്ട് വെക്റ്ററുകളുടെ ഗണത്തെ സൂചിപ്പിക്കുന്നു അതിന് കീഴിൽ ഔട്ട്പുട്ട് g ഒരു മൂല്യമായി സ്ഥിരത കൈവരിക്കും സമയം t 2 ന് തുല്യമല്ല നിങ്ങൾ g കാണുന്നു ഇതിന്റെ കാലതാമസം 1 അതിനാൽ ഇത് dക്ക് തുല്യമായിരിക്കും 1 t 1 ന് തുല്യമാണ് അത് ഗേറ്റ് f 1 t 1 ന് തുല്യമാണ് കാരണം സമയം 1 കുറവാണ് അതിനാൽ d എന്നത് 1 ന് തുല്യമാണെങ്കിൽ ഈ ഗേറ്റ്ല്ലാത്ത രണ്ട് ഇൻപുട്ടുകളും 0 കൂടാതെ 0 ആകയാൽ അത് 0 ഡിലേയ് വീണ്ടും 1 ആണ് ഇപ്പോൾ സമയം 0 ഉം b ഉം 0 ആയിരിക്കും കൂടാതെ 1 ന് തുല്യമാണ് f എന്നാൽ ഒരു OR ഗേറ്റ് ഉണ്ട് അതിനാൽ ഒന്നുകിൽ e 1 അല്ലെങ്കിൽ c ആകും 1 അതിനാൽ c 1 ആകും അല്ലെങ്കിൽ e ആകും 1 അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഒരു 0 t 0 എന്ന് കണക്കാക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് അതായത് 0 ന് തുല്യമായ സമയത്ത് എനിക്ക് എല്ലാ ഇൻപുട്ടുകളും വരുന്നുണ്ട് നിങ്ങൾ പറയുന്നത് a 0 ആണ് ഞാൻ അത് a അല്ല എന്ന് എഴുതുന്നു സമയം 0 ന് തുല്യമാണ് b 0 ന് തുല്യമാണ് ഞാൻ ഇത് b അല്ല എന്ന് എഴുതുന്നു ഇവിടെ t 0 ന് തുല്യമാണ് c 1 ന് തുല്യമാണ് അത് മാത്രം c 0 എന്നതിന് തുല്യമായ സമയത്ത് t e 1 ന് തുല്യമാണ് നിങ്ങൾക്ക് 0 എന്നതിന് തുല്യമല്ലെന്ന് പറയാൻ കഴിയില്ല അത് നിർവ്വചിച്ചിട്ടില്ല അതിനാൽ ഇത് ശൂന്യമാണ് അതിനാൽ ഇത് c a ബാർ b ബാർ c മാത്രമാണ് അതിനാൽ നമുക്ക് അതിനെ s1 t 2 ന് തുല്യമായി വിളിക്കാം ഞാൻ t ഇൻഫിനിറ്റിക് തുല്യമാണെന്ന് കരുതുകയാണെങ്കിൽ അതിനർത്ഥം ശരിയായ ലോജിക് ഫംഗ്ഷൻ ഇത് ഞങ്ങൾ ഇതിനകം കണ്ടതാണ് തിരിച്ചറിഞ്ഞ പ്രവർത്തനം a ബാർ b ബാർ c ആണ് അതിനാൽ ഇത് ഇൻഫിനിറ്റിക് തുല്യമായ t യുടെ തുടക്കമായി നിർവചിക്കപ്പെടുന്നു അതിനാൽ ഡിലേയ് പരിഗണിക്കില്ല അതിനാൽ ഇവ 2 തുല്യമാണെന്ന് ഞങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾ ഈ 2 കുറച്ചാൽ അത് ശൂന്യമാകും അതിനാൽ തുടക്കത്തിന് ഒരു പ്രശ്നവുമില്ല എന്നാൽ നമുക്ക് ഓഫ്സെറ്റ് നോക്കാം g 0 t 2 ന് തുല്യമാണ് അതിനാൽ g 0 ന് തുല്യമാകുമ്പോൾ d f എന്നിവയിലെ ആർക്കും 0 അതിനാൽ d 0 ന് തുല്യമാണ് t 1 ന് തുല്യമോ f 0 ന് തുല്യമാണെങ്കിൽ അതായത് e യും c യും 0 f 0 എന്നാൽ c യും e യും 0 ആണ് d 0 എന്നാൽ അവയിൽ ആർക്കും 1 a 1 അല്ലെങ്കിൽ b 1 ആകാം അതിനാൽ a 1 ആണ് നിങ്ങൾ ഇപ്പോൾ എഴുതുക ഇതിനർത്ഥം ഒരു സമയം t 0 ന് തുല്യമാണ് ഇതിനർത്ഥം a അല്ലെങ്കിൽ അർത്ഥം പ്ലസ് അല്ലെങ്കിൽ നൊട്ടേഷൻ ഇത് b c 0 t 0 ആണ് c ബാർ ഇന്റർസെക്ഷൻ ഫൈ ഇത് 0 a പ്ലസ് b മാത്രമായി മാറുന്നു എന്നാൽ ഈ g 0 t ഇൻഫിനിറ്റിക് തുല്യമാണ് നിങ്ങൾ ഇതിനകം കണക്കുകൂട്ടിയിരിക്കണം a പ്ലസ് b പ്ലസ് c അല്ല അതിനാൽ നിങ്ങൾ ഒരു കൂട്ടം സബ്ട്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവ ഒരുപോലെയല്ല അതിനാൽ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഇത് a പ്ലസ് b ആയി ലഭിച്ചു നിങ്ങൾക്ക് ഈ b ലഭിച്ചു നിങ്ങൾ ഒരു നിശ്ചിത വ്യത്യാസം എടുക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് a ബാർ b ബാർ c ബാർ ലഭിക്കും അതായത് 0 0 0 എന്ന ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ ഉണ്ട് അതിന് 2 ന് തുല്യമായ ഡിലേയ് തൃപ്തികരമല്ല ഡിലേയ് gക്ക് തുല്യമായിരിക്കും അതിനാൽ ഈ രീതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഏകദേശ ആശയം ഇതാണ് ചുരുക്കത്തിൽ ഫാൾസ് പാതയെക്കുറിച്ചുള്ള അനാലിസിസ് പ്രധാനമാണ് ഇത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് നിരവധി പ്രായോഗിക അൽഗോരിതങ്ങൾ നിലവിലുണ്ട് അതിനാൽ അവയിൽ ചിലത് ഞങ്ങൾ പരാമർശിച്ചു അവർക്ക് വളരെ വലിയ സർക്യൂട്ടുകൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം അവരുടെ കണക്കുകൂട്ടലും സങ്കീർണ്ണതയും അത്ര ഉയർന്നതല്ല അതിനാൽ നോക്കേണ്ട പ്രശ്നങ്ങൾ ഇൻക്രിമെന്റൽ അനാലിസിസ് ഞങ്ങൾ സർക്യൂട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾ എല്ലായിടത്തും അനാലിസിസ് നടത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയായ ഇൻക്രിമെന്റൽ അനാലിസിസ് നടത്താനാകുമെന്നതാണ് ഈ ലോജിക് ഒപ്റ്റിമൈസേഷനും ഞങ്ങൾ സാധാരണയായി ധാരാളം ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒപ്റ്റിമൈസേഷൻ നടത്തുമ്പോൾ അതേ പ്രക്രിയ നിങ്ങൾക്ക് അതിനുള്ളിൽ സംയോജിപ്പിക്കാൻ കഴിയുമോ വീണ്ടും ആഴത്തിലുള്ള സബ് മൈക്രോൺ പ്രശ്നങ്ങൾക്ക് നമ്മൾ ക്രോസ് ടോക്ക് ശബ്ദ പ്രശ്നങ്ങൾ എന്നിവ പരിഗണിക്കേണ്ടതുണ്ട് ഇതിൽ ചിലത് ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു